അടയാളവാക്കുകൾ റസ്പോൺസ് ടൈം ഡിലേ ഫംഗ്ഷൻ ഫേസ് മാർജിൻ ഫ്രീക്വൻസി ഫ്ലോ റേറ്റ് ഗെയിൻ മാർജിൻ സുപ്രഭാതം ഈ കോഴ്സിന്റെ പാഠം നമ്പർ 15 നോക്കാം നമ്മൾ 2 വിഷയങ്ങൾ പഠിക്കും ടൈം ഡിലേ സിസ്റ്റങ്ങളുടെ പ്രിഡിക്റ്റിവ് കൺട്രോൾ ഇൻവർസ് റസ്പോൺസ് സംവിധാനങ്ങളുടെ നിയന്ത്രണം വ്യവസായത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് പ്രത്യേക തരം പ്രക്രിയകൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നു ഈ പ്രക്രിയകൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക കോൺഫിഗറേഷനുകൾ നമ്മൾ കാണാൻ പോകുന്നു ഈ കോഴ്സിനുള്ള പ്രബോധന ലക്ഷ്യങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം ഒന്നാമതായി വ്യാവസായിക പ്രക്രിയകളിൽ ടൈം ഡിലേ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് മനസിലാക്കേണ്ടതുണ്ട് തുടർന്ന് ഈ ഡിലേന്റെ ഫലമെന്താണെന്ന് മനസിലാക്കേണ്ടതുണ്ട് ടൈം ഡിലേ സാധാരണയായി സ്ഥിരതയെ നശിപ്പിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവസാനമായി ടൈം ഡിലേ പശ്ചാത്തലത്തിൽ അത് നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമെങ്കിലും നോക്കേണ്ടതുണ്ട് അതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കാണുക ഇൻവർസ് റസ്പോൺസ് പ്രക്രിയകൾക്കായി ഇൻവർസ് റസ്പോൺസ് എന്താണെന്നും അത് എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം കുറഞ്ഞത് ഒരു ഉദാഹരണമെങ്കിലും നമ്മൾ കാണും ഇത് നിയന്ത്രണ സമയത്ത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും ഇൻവർസ് റസ്പോൺസ് കോമ്പൻസേഷന്റെ ഒരു രീതിയും നമ്മൾ കാണും അതിനാൽ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈം ഡിലേന്റെ കാരണങ്ങൾ ആദ്യം നോക്കാം ടൈം ഡിലേന്റെ പ്രധാന കാരണം റ്റ്റാൻസ്പർറ്റേഷൻ ലാഗ് ആണ് ടൈം ഡിലേനുള്ള ഏറ്റവും സാധാരണവും പ്രചാരത്തിലുള്ളതുമായ കാരണമാണിത് കാരണം വ്യവസായത്തിൽ പ്രവർത്തന സമയത്ത് മെറ്റീരിയൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടതുണ്ട് മെറ്റീരിയൽ കൈമാറ്റം ദ്രാവകങ്ങളുടെ ഒഴുക്ക് ചലനങ്ങൾ ഇവയെല്ലാം സമയമെടുക്കുന്നു ഇതിനെ റ്റ്റാൻസ്പർറ്റേഷൻ ലാഗ് എന്ന് വിളിക്കുന്നു ടൈം ഡിലേ കാണുന്ന ഭൂരിഭാഗം കേസുകളും പ്രത്യേകിച്ചും പ്രോസസ്സ് കൺട്രോൾ കെമിക്കൽ പ്രോസസ് കൺട്രോൾ മുതലായവയിലാണ് ഭൂരിഭാഗം കേസുകളും ഈ ഗതാഗത കാലതാമസമാണ് അതിനാൽ ഈ റ്റ്റാൻസ്പർറ്റേഷൻ ലാഗ് ഒരു പ്രക്രിയയുടെ കാലതാമസത്തിന് കാരണമാകും കാരണം കാര്യങ്ങൾ ഒരു അറ്റത്ത് നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റലേഷൻ നിരയുണ്ടെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ നിയന്ത്രണം ആവശ്യം എന്ന് കരുതുക ഒരു ഇൻപുട്ട് നൽകുന്നു എന്ന് കരുതുക റീ ബോയിലർ ചൂട് ആണ് ഇൻപുട്ട് എന്ന് കരുതുക ആ ഇൻപുട്ടിന്റെ പ്രഭാവം യാത്ര ചെയ്യേണ്ടതാണ് അത് മെറ്റീരിയലിലെ താപനില വ്യതിയാനത്തിലേക്ക് നയിക്കും തുടർന്ന് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കേണ്ടതുണ്ട് നീരാവി മുകളിലേക്ക് സഞ്ചരിക്കേണ്ടതും ദ്രാവകം താഴേക്ക് സഞ്ചരിക്കേണ്ടതുമാണ് അവസാനം കോമ്പോസിഷൻ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഇത് പ്രധാനമായും ഡിലേ ഉൾക്കൊള്ളുന്നു അതുപോലെ ഒരു ആക്യുവേറ്ററിന്റെ കാര്യവും നമുക്ക് താപനില നിയന്ത്രണത്തിന്റെ കാര്യം നോക്കാം റിയാക്ടറുകളുടെ ജാക്കറ്റുകൾക്ക് ചുറ്റും ചൂടായ നീരാവി അയച്ചാണ് താപനില നിയന്ത്രിക്കുന്നത് അതിനാൽ നിങ്ങൾ ഒരു ഇൻപുട്ട് നൽകുകയാണെങ്കിൽ അതായത് ഒരു വാൽവിന് ഒരു കമാൻഡ് നൽകി നീരാവി ഫ്ലോ റേറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ വർദ്ധിച്ച ഫ്ലോ റേറ്റ് ആ നീരാവി യാത്രയെ അനുവദിക്കുകയും കൈമാറ്റം യഥാർത്ഥത്തിൽ നടക്കാൻ ജാക്കറ്റ് നിറയ്ക്കുകയും വേണം അതിനാൽ ഈ റ്റ്റാൻസ്പർറ്റേഷൻ ലാഗ് പ്രക്രിയയിലും ആക്യുവേറ്ററിലും കാലതാമസമുണ്ടാക്കുന്നു റ്റ്റാൻസ്പർറ്റേഷൻ ലാഗ് പുറമെ സെൻസറുകളിലും ഡിലേ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്

ഉദാഹരണത്തിന് കോമ്പോസിഷൻ നിയന്ത്രണത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലൂപ്പിൽ അനലൈസറുകൾ എന്ന് വിളിക്കുന്ന വിശകലന ഉപകരണങ്ങൾ ഉണ്ട് ദ്രാവകങ്ങളുടെ വിവിധ ഗുണങ്ങൾ അവ നൽകും ഉദാഹരണത്തിന് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫ് ഒരു പ്രത്യേക ഘടകത്തിന്റെ ശതമാനം നൽകും അവയുടെ സ്വഭാവമനുസരിച്ച് ഈ ഉപകരണങ്ങൾക്ക് ചിലപ്പോൾ ഡിലേ ഉണ്ടാകും സെൻസറുകൾക്കും കാലതാമസമുണ്ടാകാം ഇപ്പോൾ വ്യവസായത്തിൽ ധാരാളം ക്യാമറ അധിഷ്ഠിത സെൻസറുകൾ ഉപയോഗിക്കുന്നു അതിൽ ഫലം നൽകുന്നതിന് ഇമേജ് പ്രോസസ്സിംഗ് അനുബന്ധ കണക്കുകൂട്ടൽ പോലുള്ള ധാരാളം കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടുന്നു ഈ കണക്കുകൂട്ടലുകളിൽ ഒരുതരം ഡിലേ ഉൾപ്പെടുന്നു സാധാരണ ഫാക്ടറി പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഡിലേ പലപ്പോഴും പ്രാധാന്യമർഹിക്കുന്നില്ല എന്നാൽ മറ്റ് തരങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ അമിത വേഗതയിൽ നിയന്ത്രിക്കേണ്ട ഇലക്ട്രോമെക്കാനിക്കൽ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഈ ഡിലേ നിസ്സാരമെന്ന് തെളിയിക്കാം കാലതാമസം സംഭവിച്ചേക്കാവുന്ന മൂന്നാമത്തെ വളരെ രസകരമായ കേസ് ലൂപ്പിലുള്ള ഒരു മനുഷ്യനാണ് വ്യാവസായിക ഉദാഹരണത്തിനുപുറമെ ലൂപ്പ് നിയന്ത്രണ സംവിധാനത്തിലെ ഒരു മനുഷ്യന്റെ ക്ലാസിക് ഉദാഹരണങ്ങളിലൊന്നാണ് ഒരു കാർ കൺട്രോളറായ ഡ്രൈവർ അവന്റെ കണ്ണുകളിൽ നിന്ന് ഫീഡ്ബാക്ക് നേടുകയും കാറിന് നിയന്ത്രണ ഇൻപുട്ടുകൾ നൽകി പ്രതികരിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് മുന്നിലുള്ള കാറിന്റെ ബ്രേക്ക് ലൈറ്റുകൾ കത്തിക്കുന്നത് അദ്ദേഹം കണ്ടാൽ അവൻ ഇത് കാണുകയും ഇടവേള കുറയ്ക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ അന്തർലീനമായ പ്രതികരണങ്ങൾ കാരണം ഇത് ചിലപ്പോൾ ഡ്രൈവർ പ്രതികരണ സമയം എന്ന് വിളിക്കുന്ന ഒരു നിശ്ചിത സമയം ഉൾക്കൊള്ളുന്നു ഗതാഗത എഞ്ചിനീയറിംഗിൽ സംഭവിക്കുന്നത് ഇതാണ് കാറുകളുടെ സുരക്ഷിത വേഗതയും സുരക്ഷിതമായ ദൂരവും എന്തായിരിക്കാമെന്നും അവ ആ വേഗതയിൽ നിലനിർത്തണമെന്നും ഒടുവിൽ തീരുമാനിക്കുന്ന ഒരു ഘടകമാണിത് അതിനാൽ ലൂപ്പിലുള്ള മനുഷ്യർ ചിലപ്പോൾ ഡിലേ ഇടയാക്കും ടൈം ഡിലേന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ടൈം ഡിലേ എങ്ങനെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഉദാഹരണത്തിന് ചൂടുള്ളതും തണുത്തതുമായ ജലവിതരണമുള്ള ചില ആധുനിക കുളിമുറിയിൽ നിങ്ങൾ കണ്ടിരിക്കണം മിശ്രിത വെള്ളത്തിന്റെ താപനില നിങ്ങൾക്ക് സജ്ജമാക്കാൻ കഴിയുന്ന ഒരു കുളിമുറി ഞാൻ കണ്ടിട്ടില്ല പൊതുവായി നൽകുന്നത് ചൂടുവെള്ള ടാപ്പാണ് ഇതിൻറെ കൈപ്പിടി നിങ്ങൾക്ക് തിരിക്കാം നിങ്ങൾക്ക് കുളിക്കാൻ താൽപ്പര്യമുണ്ടെന്നും ഒരു നിശ്ചിത താപനിലയിൽ വെള്ളം വേണമെന്നും കരുതുക അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു നിയന്ത്രണ ലൂപ്പ് സജ്ജീകരിക്കാൻ പോകുന്നു തണുത്ത വെള്ളം പരമാവധി ഓണാക്കുക എന്നതാണ് കാര്യങ്ങൾ ചെയ്യാനുള്ള സുരക്ഷിതമായ മാർഗം എന്നിട്ട് നിങ്ങളുടെ കൈ ഷവർ ഇട്ടതിനുശേഷം താപനില അനുഭവിക്കുക തുടർന്ന് ചൂടുവെള്ളം ക്രമീകരിക്കുക വാസ്തവത്തിൽ ഇതാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ തണുത്ത വെള്ളത്തിൽ കൈ വച്ചു അത് വളരെ തണുപ്പായിരുന്നു അതിനാൽ ഒരു ടാപ്പ് ചൂടാക്കി മാറ്റാൻ തുടങ്ങി ഞാൻ തിരിച്ചപ്പോൾ പെട്ടെന്ന് വെള്ളം വളരെ ചൂടുള്ളതായി ഞാൻ കണ്ടെത്തി പിന്നെ ഞാൻ തിരിച്ചപ്പോൾ പെട്ടെന്ന് വെള്ളം വളരെ തണുത്തതാണെന്ന് ഞാൻ കണ്ടെത്തി രണ്ട് മൂന്ന് സൈക്കിളുകൾക്ക് ശേഷം എനിക്ക് ഒരു പ്രത്യേക താപനിലയിലേക്ക് സജ്ജമാക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുത ഞാൻ ശ്രദ്ധിക്കുന്നു പക്ഷേ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ഭാഗത്തേക്കോ നെഗറ്റീവ് ഭാഗത്തേക്കോ കൂടുതലാണ് ഓസിലേറ്റിംഗ് പ്രോസസ് കൺട്രോൾ ലൂപ്പിന്റെ ഒരു സാധാരണ കേസാണിത് ലൂപ്പ് ആന്ദോളനം ചെയ്യുകയായിരുന്നു കാരണം ഞാൻ കൈപ്പിടി തിരിക്കുന്നതും വെള്ളം എന്റെ കൈയിലേക്ക് വരുന്നതും തമ്മിൽ ഡിലേ ഉണ്ട് കാരണം അത് ഒരു പൈപ്പിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു ഗതാഗതമുണ്ട് സെൻസറിൽ കാലതാമസമില്ല കാരണം പൂരിപ്പിക്കാനുള്ള കാലതാമസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നിസാരമാണ് എന്നാൽ എന്റെ കൺട്രോളർ നേട്ടം വളരെ ഉയർന്നതാണെന്ന വസ്തുതയോടൊപ്പം ബാത്ത്റൂമിൽ നിങ്ങൾക്കുള്ള സാധാരണ ടാപ്പുകൾ പെട്ടെന്ന് തുറക്കുന്ന തരത്തിലുള്ള വാൽവാണ് കൈപ്പിടിയുടെ ടെ ഒരു ചെറിയ തിരിവിലൂടെ നിങ്ങൾക്ക് ഫ്ലോ റേറ്റ് വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും കൂടാതെ എനിക്ക് എവിടെയെങ്കിലും പോകേണ്ടിവന്നതിനാൽ രാവിലെ അക്ഷമനുമാണ് അതിനാൽ ഞാൻ വളരെ വേഗത്തിൽ കൈപ്പിടി നീക്കുന്നു അതിനാൽ എന്റെ കൺട്രോളർ നേട്ടം വളരെ ഉയർന്നതും ലൂപ്പിൽ ഡിലേ ഉണ്ടാകും ഇതിൻറെ ഫലം ഒരു അസ്ഥിരമായ പ്രോസസ് ലൂപ്പായിരുന്നു അത് തുടർച്ചയായി ഓസിലേറ്റ് ചെയ്യുന്നു അതിനാൽ കൺട്രോളർ നേട്ടങ്ങൾ ഉയർന്നതാണെങ്കിൽ പ്രോസസ്സ് ലൂപ്പിൽ സംഭവിക്കുന്നത് ഇതാണ് അതായത് അത് ഓസിലേറ്റ് ചെയ്യും നമുക്ക് ഈ പ്രതിഭാസത്തെ കുറച്ചുകൂടി സാങ്കേതികമായി വിശകലനം ചെയ്യാം ഇതാണ് സ്റ്റാൻഡേർഡ് പ്രോസസ്സ് കൺട്രോൾ ലൂപ്പ് ഇതാണ് കൺട്രോളർ ഇതാണ് പ്ലാന്റ് ഇത് ഞാൻ സംസാരിക്കുന്ന ഡിലേ ആണ് ഇത് ഒരു സാധാരണ പ്രോസസ്സ് കൺട്രോൾ ലൂപ്പാണ് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ennath GGc e sTd ഡിലേ ആണ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാനും നമുക്ക് ശ്രമിക്കാം സ്ഥിരമായ അവസ്ഥയിൽ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഡിസി അല്ലെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും മിക്ക കേസുകളിലും 0 ന് തുല്യമായി ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്ഥിരമായ പെരുമാറ്റം നേടാനാകും അതിനാൽ നമ്മൾ കാലതാമസത്തിന് അനുസരിച്ച് 0 ന് തുല്യമാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GGc 1 GGc ആയി മാറും സ്റ്റെഡി സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഡിലേ ബാധിക്കില്ല അതിനാൽ സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥയിൽ കാലതാമസത്തിന് ഒരു ഫലവുമില്ല എന്നാൽ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് അവസ്ഥയിൽ ഒരു ഫലമുണ്ട് സെറ്റ് പോയിന്റുകൾ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴോ അത് പ്രതികൂല ഫലമുണ്ടാക്കും ഈ സമയങ്ങളിൽ പ്രക്രിയ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും ഒരേ ട്രാൻസ്ഫർ ഫംഗ്ഷനെ അല്പം വ്യത്യസ്തമായ രീതിയിൽ നോക്കാം നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GGc e sTd ആയിരുന്നു അതിനാൽ ഇപ്പോൾ ഈ e sTd ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഈ ഭാഗം ഈ ബ്ലോക്ക് പ്രതിനിധീകരിക്കാം ഇപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രമാറ്റിക് രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയും ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നൽകിയാൽ പ്രതികരണത്തിന് കാരണമാകുന്ന കാലതാമസമുണ്ട് ഔട്ട്പുട്ട് ഉടനടി നീങ്ങാൻ ഒരു വഴിയുമില്ല നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് പ്ലാന്റിന്റെ അന്തർലീന സ്വഭാവമാണ് സാധാരണ ഫീഡ്ബാക്ക് നിയന്ത്രണം ചെയ്യാൻ കഴിയുന്ന കാലതാമസമില്ലാത്ത പ്ലാന്റിൽ നിന്ന് ഈ പ്ലാന്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒന്നാമതായി ഔട്ട്പുട്ടിൽ ഡിലേ സംഭവിക്കുന്ന രീതിയിൽ ഇത് വ്യത്യസ്തമാണ് ഡിലേ ഒഴിവാക്കാനാവില്ല പക്ഷേ ഈ ഡിലേ സ്ഥിരതയിൽ ഒരു പ്രശ്നത്തിനും ഇടയാക്കില്ല നീക്കംചെയ്യാൻ കഴിയാത്ത TD ഉപയോഗിച്ച് റസ്പോൺസ് വൈകും എന്നാൽ ഈ ഡിലേ ആണ് സ്ഥിരതയിൽ പ്രശ്നമുണ്ടാക്കുന്നത് കാരണം ഇത് ലൂപ്പ് ഫെയ്സിലേക്ക് ചേർക്കാൻ പോകുന്നു ഇത് മൈനസ് sTd ആണ് അതിനാൽ ഇത് ലൂപ്പ് ഫേസ് ലാഗ് ചേർക്കാൻ പോകുന്നു മാത്രമല്ല ഇത് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും ഇത് എങ്ങനെയാണ് പ്രശ്നമുണ്ടാക്കുന്നത് ഒരു സൌജന്യ പ്രക്രിയയിൽ ഇത് ഒരു നേരിട്ടുള്ള പദമായിരിക്കും ഡിലേ നേരിട്ട പ്രക്രിയയിൽ ലൂപ്പ് നേട്ടത്തിലേക്ക് ഒന്നും ചേർക്കാതെ നമ്മൾ അധിക ലൂപ്പ് ഫേസ് ഡിലേ ചേർക്കാൻ പോകുന്നു കാരണം ഈ ഓപ്പറേറ്ററുടെ വ്യാപ്തി എല്ലായ്പ്പോഴും ഒന്നാണ് ഒരു ഫേസ് കാലതാമസം മാത്രമേയുള്ളൂ ഇത് ലൂപ്പ് ഫേസ് ലാഗിലേക്ക് ചേർക്കുന്നു അതിനാൽ ഇത് നേട്ടവും ഫേസ് മാർജിനും കുറയ്ക്കുന്നുവെന്ന് നമ്മൾ കൂടുതൽ വിശദമായി കാണും ഇത് എങ്ങനെ നേട്ടവും ഫേസ് മാർജിനും കുറയ്ക്കും അസ്ഥിരത ഒഴിവാക്കാൻ നേട്ടം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് ഗെയിൻ മാർജിൻ കുറച്ചാൽ അനുവദനീയമായ ഗെയിൻ കുറയുന്നു അതിനാൽ സാധ്യമാകുമ്പോഴെല്ലാം നിങ്ങൾ കുറഞ്ഞ ഗെയിൻ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഒരു അസ്ഥിരമായ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്നതാണ് വരുന്ന പ്രശ്നം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രൊപോഷണൽ കണ്ട്രോളർ ഉപയോഗിക്കുന്നുവെന്നും നിങ്ങൾ ഒരു ചെറിയ ഗെയിൻ ഉപയോഗിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക സ്റ്റെഡി സ്റ്റേറ്റ് ഡിലേ യാതൊരു ഫലവുമില്ലാത്തതിനാൽ നിങ്ങൾ കൂടുതൽ സ്റ്റെഡി സ്റ്റേറ്റ് എറർ നേടാൻ പോകുന്നു സ്ഥിരത കാരണങ്ങളാൽ നിങ്ങൾക്ക് K യുടെ മൂല്യം കുറവാണ് K യുടെ മൂല്യം കുറയുന്നു ഇത് കൂടുതൽ സ്റ്റെഡി സ്റ്റേറ്റ് എറർ കാരണമാകും ഇത് പ്രകടനത്തെ തരം താഴ്ത്തും ടൈം ഡിലേന്റെ പ്രധാന പ്രശ്നം ഇതാണ് ഈ ഗെയിൻ മാർജിനും ഫേസ് മാർജിനും എങ്ങനെ കുറയുന്നുവെന്ന് നമുക്ക് നോക്കാം പ്ലാന്റിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ GGC എന്ന് സങ്കൽപ്പിക്കുക ഇതുപോലുള്ള ഒരു ന്യൂക്വിസ്റ്റ് പ്ലോട്ട് ഉണ്ടെന്നും സങ്കൽപ്പിക്കുക അതിനാൽ ഈ ദിശയിൽ ω വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ഫ്രീക്വൻസി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദിശയാണ് ഇവ രണ്ട് അക്ഷങ്ങളാണ് ഇതാണ് യഥാർത്ഥ അക്ഷം ഇതാണ് സാങ്കൽപ്പിക അക്ഷം ഇതാണ് യഥാർത്ഥ GH അക്ഷം ഇതിനെ ഫേസ് ക്രോസ്ഓവർ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു ഇവിടെയുള്ള ഗെയിൻ GM ആണെങ്കിൽ 1GM ഗെയിൻ മാർജിൻ ആണ് ഇത് ഡിലേ ഇല്ലാത്ത ലൂപ്പിന്റെതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിലേ ഉള്ള ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഓരോ ഫ്രീക്വൻസിയിലും മാഗ്നിറ്റ്യൂഡ് അതേപടി നിലനിൽക്കുകയും ഒരു ഫേസ് കാലതാമസം ചേർക്കുകയും ചെയ്യും എന്നതാണ് ഈ ഫ്രീക്വൻസിയിൽ നിങ്ങൾ സ്ഥിരമായ മാഗ്നിറ്റ്യൂഡ് ലോക്കി ചേർക്കുകയാണെങ്കിൽ ഫേസ് ലാഗ് ഫ്രീക്വൻസിക്ക് ആനുപാതികമായിരിക്കും ഈ ഫ്രീക്വൻസിയിൽ ഈ ഫേസ് ഡിലേ ചേർത്തുവെന്ന് കരുതുക അതിനാൽ ഈ ഉയർന്ന ഫ്രീക്വൻസിയിൽ മറ്റ് ചില ഫേസ് ഡിലേ ചേർക്കും ഇപ്പോൾ പ്ലാന്റ് ഇതുപോലുള്ള മറ്റൊരു പാത പിന്തുടരും ഈ പ്രതിഭാസം നമുക്ക് മനസിലാക്കാൻ പച്ച പോലുള്ള മറ്റൊരു നിറം നൽകാം ഡിലേ ഉള്ള പുതിയ പ്ലാന്റ് പച്ച വരയിലൂടെ ഒഴുകുന്നു ഡിലേ കാരണം ഇത് മാറ്റി ഇപ്പോൾ ഫേസ് മാർജിൻ കുറഞ്ഞു മുമ്പ് ഇത് ഫേസ് മാർജിൻ ആയിരുന്നു ഇതിനെ ഗെയിൻ ക്രോസ്ഓവർ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു അതിനാൽ ഫേസ് മാർജിൻ ഈ കോണായിരുന്നു ഇപ്പോൾ ഫേസ് മാർജിൻ കുറഞ്ഞു ഇത് ഇപ്പോൾ ഈ കോണാണ് അതുപോലെ ഗെയിൻ വർദ്ധിക്കുകയും ഇപ്പോൾ ഗെയിൻ മാർജിൻ കുറയുകയും ചെയ്തു GM2 ആണ് ഗെയിൻ മാർജിൻ അത് കുറഞ്ഞു സിസ്റ്റം ക്രമേണ അസ്ഥിരതയിലേക്ക് അടുക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാന്റിനായി ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി ഗെയിൻ മഞ്ഞ വരയെ പ്രതിനിധീകരിക്കുന്നു പച്ച വരയെ പ്രതിനിധീകരിക്കുന്ന പ്ലാന്റ് കുറഞ്ഞ ഗെയിൻ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് സ്ഥിരത ഒഴിവാക്കാൻ ഗെയിൻ കുറയ്ക്കേണ്ടതും അത് പ്രതികരണത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഞാൻ നിങ്ങളെ ഇത് മനസിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് മടങ്ങാം ഞാൻ ഒരു സാങ്കൽപ്പിക പ്രതിവിധി അവതരിപ്പിക്കാം ഈ ഘട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പ്രക്രിയയുടെ ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ സ്ഥിരത ഭാഗമെങ്കിലും GC ആയിരിക്കും സ്ഥിരത കാഴ്ചപ്പാടിൽ ഡിലേന്റെ ഫലം നിർവീര്യമാക്കാം പ്രതികരണത്തിൽ സാധാരണയായി അറിയാത്ത ഡിലേ ഉണ്ടാകും വ്യാവസായിക പ്രക്രിയ നിയന്ത്രണത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികരണം കുറച്ച് കഴിഞ്ഞ് വരും അത് വളരെയധികം പ്രശ്നങ്ങളില്ല ഫീഡ്ബാക്ക് ലൂപ്പിലെ മാറ്റമാണ് പ്രശ്നം എനിക്ക് അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഇത് ഈ ഘട്ടത്തിനുള്ളിൽ തന്നെ പ്രക്രിയയ്ക്കുള്ളിലായതിനാൽ ഇത് അളക്കാനാകില്ല ഇത് പ്രക്രിയയുടെ ഒരു ആന്തരിക ഭാഗമാണ് ഈ പോയിന്റ് അളക്കാനാകില്ല അതിനാലാണ് ഈ പരിഹാരം സാങ്കൽപ്പികം കാരണം നമുക്ക് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയില്ല യഥാർത്ഥ ഫീഡ്ബാക്ക് ഇവിടെ വരുന്നു നമുക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട മാർജിൻ ലഭിക്കുമായിരുന്നു എന്റെ പഴയ കേസ് പോലെ എനിക്ക് മെച്ചപ്പെട്ട മാർജിനുകൾ നൽകാമായിരുന്നു അതിനാൽ എന്റെ മാർജിനുകൾ അവശേഷിക്കുന്നു അവ അധപതിക്കുന്നില്ല അതിനാൽ എനിക്ക് ഉയർന്ന കൺട്രോളർ ഗെയിൻ ഉപയോഗിക്കാൻ കഴിയും ഡിലേ വരുത്തിയ അധിക സ്ഥിരത തടസ്സത്തെക്കുറിച്ച് ആകുലപ്പെടാതെ എനിക്ക് ട്രാൻസിയൻറ്റ് പ്രതികരണം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഉയർന്ന കൺട്രോളർ ഗെയിൻ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും അതാണ് പ്രശ്നം ഇത് തെളിയിക്കാൻ ഇതിനെ റിയലൈസബൽ ഫോം എന്ന് വിളിക്കുന്നു ഞാൻ സാധാരണ ഫീഡ്ബാക്ക് നൽകിയതിനുശേഷം ഞാൻ ഒരു അധിക ഫീഡ്ബാക്ക് നൽകുന്നു അനുയോജ്യമായ ക്രമീകരണത്തിൽ y G e sTd U എനിക്ക് G Td എന്നിവ വളരെ കൃത്യമായി അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനുകരിക്കാനും u വഴി ഫീഡ് നൽകാനും കഴിയാത്തതിന് ഒരു കാരണവുമില്ല കൺട്രോളറിൽ നിന്ന് യു വരുന്നു എനിക്ക് മോഡൽ അറിയാമായിരുന്നുവെങ്കിൽ u നേടുന്നതിൽ ഒരു പ്രശ്നവുമില്ല G യും Td യും എനിക്കറിയാമെങ്കിൽ അവ ലഭിക്കും എന്നാൽ നിങ്ങൾക്കത് തൽക്കാലം ഉണ്ടെന്ന് കരുതുക അപ്പോൾ അത് ഇവിടെ ഇടാം ഞാൻ ഇവ ചേർത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എനിക്ക് Gu ലഭിക്കും അപ്പോൾ എന്താണ് Gu Gu ആണ് ഇവിടെ ഉള്ള സിഗ്നൽ അതിനാൽ ഈ പദം ചേർക്കുന്നതിലൂടെ ഞാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇവിടെ ഞാൻ ഒരു വെർച്വൽ ഫീഡ്ബാക്ക് നൽകുന്നു ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡിലേ ഇല്ലാതെ എനിക്ക് സിസ്റ്റത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗെയിൻ ഉപയോഗിക്കാൻ എനിക്ക് കഴിയും ഇതാണ് സ്മിത്ത് പ്രിഡിക്റ്റർ നിയന്ത്രണത്തിന്റെ അടിസ്ഥാന തത്വം എന്തുകൊണ്ടാണ് ഇതിനെ പ്രിഡിക്റ്റർ എന്ന് വിളിക്കുന്നത് Y ഔട്ട്പുട്ട് പ്രവചിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ പ്രിഡിക്റ്റർ പദം ഉണ്ടാകും ഇതാണ് ഔട്ട്പുട്ട് ഇത് ഭാവിയിലെ ഔട്ട്പുട്ടല്ലാതെ മറ്റൊന്നുമല്ല ഇത് Td സമയത്തിന് ശേഷം അളക്കാവുന്ന രൂപത്തിൽ ഇവിടെ ദൃശ്യമാകും ഞാൻ അത് പുനസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രവചിക്കാനും തുടർന്ന് ഫീഡ്ബാക്ക് നൽകാനും ഞാൻ ശ്രമിക്കുന്നു അതിനാലാണ് ഇതിനെ സ്മിത്ത് പ്രെഡിക്ടർ കൺട്രോൾ എന്ന് വിളിക്കുന്നത് ഇത് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ ഉണ്ടാക്കാം ആദ്യത്തെ ചോദ്യം അത് ചെയ്യാൻ കഴിയും എന്നതാണ് ഇത് കൃത്യമായി അറിയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു കണക്കാക്കുന്നത് അത്ര ലളിതമല്ല ടൈം ഡിലേ പലപ്പോഴും പ്രതികരണത്തിലെ ടൈം കോൺസ്റ്റൻന്റ് ആയി ആശയക്കുഴപ്പത്തിലാകുന്നു അവ യഥാർത്ഥത്തിൽ സമാനമായ പ്രതികരണമാണ് സൃഷ്ടിക്കുന്നത് ടൈം ഡിലേയും ടൈം കോൺസ്റ്റൻന്റ് തമ്മിൽ വേർതിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് എന്നാൽ സമയ കാലതാമസവും സമയ സ്ഥിരതയും വളരെ വ്യക്തമായ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് K 1 sτ എന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക ഫേസ് റസ്പോൺസ് സംബന്ധിച്ചിടത്തോളം ഇവിടെ τ എന്നത് ടൈം കോൺസ്റ്റൻന്റ് ആണ് നമുക്ക് ഇപ്പോൾ ഒരു വൈറ്റ് പേജ് എടുക്കാം K എന്നത് 1 പ്ലസ് sτ കൊണ്ട് ഹരിക്കുന്നു കെ യുടെ ഫേസ് 1 പ്ലസ് sτ എന്നത് 90 ആയി പരിമിതപ്പെടുത്താൻ പോകുന്നു 90 എന്നതിനപ്പുറം ഇത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഇത് K 1 sτ നുള്ളതാണ് അതേസമയം ke sτ ഫ്രീക്വെൻസി അനുസരിച്ച് ലീനിയർ ആയി വർദ്ധിക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരിക്കും അതിനാൽ അതിരുകളില്ല ഉദാഹരണത്തിന് ഈ സിസ്റ്റം ഫേസ് എല്ലായ്പ്പോഴും 90 ൽ താഴെയായിരിക്കും എന്നാൽ ഈ സിസ്റ്റം ഫേസ് ചില ഫ്രീക്വെൻസിയിൽ 180 പോയിന്റ് കടക്കും ഇത് സ്ഥിരതയുടെ നിർണായക പോയിന്റാണ് എല്ലായ്പ്പോഴും ഈ ഫേസ് ഡിലേ ഉണ്ട് ഡിലേ പ്രക്രിയയുടെ ഫേസ് ഡിലേ എല്ലായ്പ്പോഴും 180 കടക്കും ആ സമയത്ത് എന്താണ് ഗെയിൻ സ്ഥിരത ഉറപ്പുവരുത്താൻ ആ സമയത്ത് ഗെയിൻ കുറയ്ക്കണം അതിനാലാണ് ഗെയിന് ഒരു പരിധി ഉള്ളത് ഈ സാഹചര്യത്തിൽ നേട്ടത്തിന് പരിധിയില്ല ടൈം കോൺസ്റ്റൻന്റ് പദവും ടൈം ഡിലേ പദവും അല്പം വ്യത്യസ്തമാണ് ടൈം ഡിലേ കൂടുതൽ അപകടസാധ്യതയുള്ളവയാണെങ്കിലും ടൈം കോൺസ്റ്റൻന്റ് നിന്ന് അവയെ വേർതിരിക്കുന്നത് എല്ലായ്പ്പോഴും അത്ര ലളിതമായിരിക്കില്ല അതിനാൽ ഡെഡ് ടൈം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക് യാഥാസ്ഥിതിക രൂപകൽപ്പന ഉണ്ടായിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും ഏറ്റവും വർസ്റ്റ് കേസ് ഡിലേ പരിഗണിച്ച് വേണം ഒരു കൺട്രോളർ k രൂപകൽപ്പന ചെയ്യാൻ കാരണം നമ്മൾ ഒരു മികച്ച കേസ് ഡിലേ രൂപകൽപ്പന ചെയ്യുകയും കാലതാമസം കൂടുതലാണെങ്കിൽ നമുക്ക് അസ്ഥിരതയും ഉണ്ടാകാം ഇത് മറ്റൊരു പ്രശ്നമാണ് കാരണം ഗെയിൻ പരിമിതപ്പെടുത്തേണ്ടിവരുന്നു മാത്രമല്ല പല കേസുകളിലും കാലതാമസം കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല നമ്മളുടെ രൂപകൽപ്പനയിൽ ഇത് യാഥാസ്ഥിതികമായി കണക്കാക്കുകയും അറിവില്ലായ്മ കാരണം ഗെയിൻ കൂടുതൽ പരിമിതപ്പെടുത്തുകയും ചെയ്യും ഡിലേ വ്യത്യാസപ്പെട്ടിരിക്കാവുന്ന മറ്റു കേസുകളും ഉണ്ടാകാം ട്രാഫിക് ഡിലേ ആണ് കാരണം അടിസ്ഥാനപരമായി ഒരു നിശ്ചിത ദൂരം പ്രവഹിക്കാൻ മെറ്റീരിയലിന് ആവശ്യമായ സമയമാണിത് ഇപ്പോൾ ഒഴുക്കും ദൂരവും കണക്കിലെടുക്കുമ്പോൾ എത്ര സമയം ആവശ്യമാണ് ടൈം ഡിലേ വ്യക്തമായും ഫ്ലോ റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഫ്ലോ റേറ്റ് സാധാരണയായി പ്ലാന്റിന്റെ പ്രവർത്തന അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ഒരു റിയാക്ടർ അമ്പത് ശതമാനം വോളിയം ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിൽ പൊതുവായി പറഞ്ഞാൽ നൂറു ശതമാനം ലോഡിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫ്ലോ റേറ്റ് അതിന്റെ പകുതിയായിരിക്കും ടൈം ഡിലേ കുറയ്ക്കും വിവിധ ഓപ്പറേറ്റിംഗ് അവസ്ഥകളെ ആശ്രയിച്ച് ഒരു പ്രക്രിയയുടെ ടൈം ഡിലേ പോലും വ്യത്യാസപ്പെടാം ഒന്നാമതായി വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കാം രണ്ടാമതായി ഇത് വ്യത്യാസപ്പെടാം എല്ലാ ഓപ്പറേറ്റിംഗ് പോയിന്റുകൾക്കുമായി ഒരൊറ്റ കൺട്രോളർ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഡിസൈൻ തയ്യാറാക്കണം അത് ഏറ്റവും വർസ്റ്റ് കേസ് ഡിലേ പോലും നല്ലതായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ഡിലേ നിങ്ങൾക്ക് വളരെ മോശം പ്രതികരണം ലഭിച്ചേക്കാം ടൈം ഡിലേ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളാണിവ ഇവ എങ്ങനെയാണ് ഇവിടെ വരുന്നത് സ്ലൈഡ് സമയം 3220 കാണുക ഈ G യും ഈ Tdയും ഉണ്ടെങ്കിൽ ഇത് കറുപ്പായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ G ഈ Td എന്നിവ ശരിയായി അറിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നടക്കില്ല ഇത് ഭാഗികമായി മാത്രമേ നടക്കൂ ഇവിടെയുംഒരു യാഥാസ്ഥിതിക രൂപകൽപ്പന നടത്തേണ്ടതുണ്ട് പക്ഷേ സ്ഥിതി മെച്ചപ്പെട്ടതാണ് വളരെ രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് Gu കണക്കാക്കണമെങ്കിൽ നമുക്ക് G ആവശ്യമാണ് കൂടാതെ നമുക്ക് G കൃത്യമായി അറിയാമെന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു Gu കണക്കാക്കി ഫീഡ്ബാക്ക് നൽകണം നമുക്ക് യു ഉണ്ട് നമുക്ക് ജി അറിയാം പിന്നെ നമുക്ക് ഈ ഫീഡ്ബാക്ക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് u എടുത്ത് G കൊണ്ട് ഗുണിച്ച് ഒരു ഫീഡ്ബാക്ക് നൽകാനാവില്ല കാരണം അത് വളരെ ലളിതമാണ് എന്നാൽ അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും ഓപ്പൺ ലൂപ്പ് കൺട്രോൾ എന്നറിയപ്പെടുന്നവ നമുക്ക് ലഭിക്കും ഫീഡ്ബാക്ക് ഒന്നുമില്ല ഓപ്പൺ ലൂപ്പ് നിയന്ത്രണത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് Gയിലെ ഏത് പിശകും y ഔട്ട്പുട്ടിനെ നേരിട്ട് ബാധിക്കും ഇവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കില്ല ഫീഡ്ബാക്ക് നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ ഗെയിൻ ചെറിയ മോഡലിംഗ് പിശകുകൾ കണക്കിലെടുക്കാതെ ഇത് പ്രകടനം നൽകുന്നു മാത്രം അല്ല പ്രകടനത്തെ ബാധിക്കില്ല എന്നതാണ് ഫീഡ്ബാക്ക് നിയന്ത്രണം ഉപയോഗിക്കുന്നതിനുള്ള ഏക കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഇത് മോഡലിംഗ് പിശകുകളുടെ സാന്നിധ്യത്തിലല്ല ഇത് G sTd ഒരു മോഡൽ അനുസരിച്ച് ഡിലേ വരുത്തുന്ന തിരുത്തലിന്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മോഡലിംഗ് പിശകുകളെയും അസ്വസ്ഥതകളെയും കുറിച്ച് നിങ്ങളുടെ നിയന്ത്രണ പ്രകടനം സെൻസിറ്റീവ് ആയി സൂക്ഷിക്കുക തുടർന്ന് നിങ്ങൾ അളവുകൾ ഫീഡ്ബാക്ക് ചെയ്യണം അതിനാൽ നിങ്ങൾക്ക് ഇത് ജി കൊണ്ട് ഗുണിച്ച് അയയ്ക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ യാഥാർത്ഥ്യത്തെ അന്ധരാക്കും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ബാധിക്കില്ല അനുയോജ്യമായ അവസ്ഥയിൽ ഇത് യഥാർത്ഥത്തിൽ Gu ആയി മാറുന്നുവെങ്കിലും യഥാർത്ഥ സാഹചര്യങ്ങളിൽ അത് Gu ആയി മാറില്ല അതാണ് നിങ്ങളുടെ നിയന്ത്രണ ലൂപ്പ് ഡിസ്റ്റർബൻസ് പോലുള്ള കാര്യങ്ങളിൽ അന്ധനാകില്ല മോഡലിംഗ് പിശകുകൾ ΔG പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതിനാൽ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് Gu എടുക്കുന്നതിനു പകരം ഈ പദം നമ്മൾ ചേർത്തത് അതിനാൽ ഇവ നിയന്ത്രണത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ട ചില അടിസ്ഥാന തത്വങ്ങളാണ്